ഇനി നമ്മൾ നോക്കുന്നത് സിംഗിൾ ഫേസ് ട്രാൻസ്ഫോർമർ ആണ് ഇവിടെ നൽകിയിട്ടുള്ള ശീർഷകം ട്രാൻസ്ഫോർമർ എന്നാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത് സിംഗിൾ ഫേസ് ട്രാൻസ്ഫോർമർ മാത്രമാണ് അത് കഴിഞ്ഞ് നമ്മൾ ത്രീ ഫേസ് ഇൻഡക്ഷൻ മെഷീൻ ചുരുക്കത്തിൽ നോക്കും പിന്നെ ഡി സി മെഷീനും ഡിസി മോട്ടോറുകളും നോക്കും ഇനി ഇത് നോക്കുകയാണെങ്കിൽ ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജുകളുടെയും കറന്റിന്റെയും മൂല്യങ്ങൾ മാറ്റുന്നതിന് മ്യൂച്ചൽ ഇൻഡക്ഷൻ എന്ന പ്രതിഭാസം ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ട്രാൻസ്ഫോർമർ അതിനാൽ അടിസ്ഥാനപരമായി ഒരു ട്രാൻസ്ഫോർമറിൽ പ്രധാന നേട്ടങ്ങളിലൊന്ന് വോൾട്ടേജ് ലെവൽ കൈമാറാൻ കഴിയും എന്നതാണ് അത് വോൾട്ടേജ് ലെവൽ വർദ്ധിപ്പിക്കും അല്ലെങ്കിൽ വോൾട്ടേജ് ലെവൽ കുറയ്ക്കും യഥാർത്ഥത്തിൽ ഇതാണ് ഒരു ട്രാൻസ്ഫോർമർ ഉദാഹരണത്തിന് പവർ സ്റ്റേഷൻ ട്രാൻസ്മിഷൻ ലൈൻ ഡിസ്ട്രിബ്യൂഷൻ ലൈൻ എന്നിവ നോക്കുമ്പോൾ വ്യത്യസ്ത വോൾട്ടേജ് ലെവലുകൾ ഉണ്ട് ആ വോൾട്ടേജ് ഘട്ടങ്ങൾ ട്രാൻസ്ഫോർമറുകൾ ഉപയോഗിച്ച് മാത്രം സ്റ്റെപ് അപ്പ് അല്ലെങ്കിൽ സ്റ്റെപ് ഡൌൺ ചെയ്യണം ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജുകളുടെയും കറന്റിന്റെയും മൂല്യങ്ങൾ മാറ്റുന്നതിന് മ്യൂച്ചൽ ഇൻഡക്ഷൻ എന്ന പ്രതിഭാസം ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ട്രാൻസ്ഫോർമർ അതിനാൽ ട്രാൻസ്ഫോർമറുകളിലെ ലോസ് പൊതുവെ കുറവാണ് അത് കൊണ്ട് തന്നെ ട്രാൻസ്ഫോർമറിന്റെ കാര്യക്ഷമത വളരെ ഉയർന്നതാണ് ലോസ് പിന്നീട് നമുക്ക് നോക്കാം അതിനാൽ സ്റ്റാറ്റിക് ആയതിനാൽ അവയ്ക്ക് ദീർഘായുസ്സുണ്ട് അവ വളരെ സ്ഥിരതയുള്ളവയാണ് ട്രാൻസ്ഫോർമർ ഒരു സ്റ്റാറ്റിക് ഉപകരണമാണ് അതിനാൽ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഒരു ഫെറോ മാഗ്നറ്റിക് കോർ പരിഗണിക്കുകയും അതിന്റെ പ്രാഥമിക വശത്ത് N1 ടേണുകളും സെക്കന്ഡറിയിൽ N2 എണ്ണം ടേണുകളും ഉണ്ടെന്ന് കരുതുക സെക്കഡറിയിൽ ലോഡും ബന്ധിപ്പിച്ചിരിക്കുന്നു പക്ഷേ അത് ഡാഷ് ലൈനിൽ കാണിച്ചിരിക്കുന്നു അതായത് ലോഡ് ബന്ധിപ്പിച്ചിട്ടില്ല ഇനി ഒരു ആൾട്ടർനേറ്റിംഗ് സപ്ലൈ വോൾട്ടേജ് V1 നൽകിയിരിക്കുന്നു അതിനാൽയഥാർത്ഥത്തിൽ ലോഡ് കണക്റ്റു ചെയ്യാത്തപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നാൽ വളരെ ചെറിയ വൈദ്യുതധാരയാണ് ഈ പ്രാഥമിക ഭാഗത്തിലൂടെ ഒഴുകുന്നത് ഫ്ലക്സ് യഥാർത്ഥത്തിൽ പ്രൈമറി വൈൻഡിങ്ങിനെയും സെക്കന്ഡറി വൈൻഡിങ്ങിനെയും ബന്ധിപ്പിക്കും ഈ വശം ഓപ്പൺ സർക്യൂട്ട് ആണെങ്കിൽ ലോഡ് കണക്റ്റുചെയ്തിട്ടില്ല എന്നാണ് ഇതിനർത്ഥം അതിനാൽ സെക്കൻഡറിയിലൂടെ വൈദ്യുതധാരകളൊന്നും ഒഴുകുന്നില്ല പക്ഷേ പ്രാഥമിക വശത്ത് ചെറിയ വോൾട്ടേജ് പ്രയോഗിച്ചിട്ടുണ്ട് അതിനാൽ എക്സൈറ്റഡ് കറന്റ് എന്ന് വിളിക്കുന്ന ചെറിയ കറന്റ് യഥാർത്ഥത്തിൽ ഈ ഫ്ലക്സ് ഉൽപാദിപ്പിക്കുന്നതിന് കാരണമാകും ഫ്ലക്സിന്റെ ദിശ റൈറ്റ് ഹാൻഡ് തംബ് റൂൾ നൽകും വൈദ്യുതധാരയുടെ ദിശയിൽ കോയിലിനെ പിടിച്ചാൽ തള്ളവിരൽ ഫ്ലക്സിന്റെ ദിശയെ നൽകും യഥാർത്ഥത്തിൽ ഇതാണ് ഫെറോ മാഗ്നറ്റിക് കോർ അതുപോലെ ഇതാണ് ഒരു ട്രാൻസ്ഫോർമറിന്റെ സർക്യൂട്ട് അപ്പോൾ പ്രൈമറി വൈൻഡിങ്ങിൽ എസി സപ്ലൈ കൊടുത്തിട്ടുണ്ട് അതുപോലെ സെക്കന്ഡറിയിൽ ലോഡും കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇതിന്റെ പ്രവർത്തന തത്വം സെക്കന്ററി ഓപ്പൺ സർക്യൂട്ടാക്കി പ്രൈമറി വൈൻഡിംഗിലേക്ക് ഒരു വോൾട്ടേജ് V1 പ്രയോഗിക്കുമ്പോൾ I0 എന്ന ലോഡില്ലാത്ത കറന്റ് ഒരു ചെറിയ കറന്റ് കോറിൽ ഒരു മാഗ്നെറ്റിക് ഫ്ലക്സ് സജ്ജമാക്കുന്നു അതിനർത്ഥം ഇവിടെ ഇത് ഒരു ചെറിയ കറന്റ് സജ്ജീകരിക്കും ഇത് പ്രാഥമിക വശമായതിനാൽ ഇത് I1 ആണ് V1 വോൾട്ടേജ് ആണ് ലോഡ് ഇല്ലാത്തപ്പോൾ I1 എന്നത് I0 കറന്റിന് തുല്യമാകും അതായത് I1 I0 ആവും ഇത് കോറിൽ കാന്തിക പ്രവാഹം സജ്ജമാക്കുന്നു ഈ ആൾട്ടർനേറ്റിംഗ് ഫ്ലക്സ് പ്രൈമറി സെക്കന്ററി കോയിലുകളുമായി ബന്ധിപ്പിക്കുകയും മ്യുച്ചൽ ഇണ്ടക്ടൻസ് കാരണം യഥാക്രമം E1 E2 emf കൾ എക്സൈറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു ഇത് കോറിൽ മാഗ്നെറ്റിക് ഫ്ലക്സ് സജ്ജമാക്കുന്നു ഈ ആൾട്ടർനേറ്റിംഗ് ഫ്ലക്സ് പ്രൈമറി സെക്കൻഡറി കോയിലുകളുമായി ലിങ്കു ചെയ്യുകയും അവ പരസ്പരം യഥാക്രമം E1 E2 എന്നിവ ഇൻഡ്യൂസ് ചെയ്യുന്നു അതിനർത്ഥം ഇവിടെ യഥാർത്ഥത്തിൽ ഐഡിയൽ ട്രാൻസ്ഫോർമറിൽ ഒരു സപ്ലൈ വോൾട്ടേജിന് അനുയോജ്യമായ ഒരു വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യപ്പെടും ഞാനിത് ഇതുപോലെ ആക്കിയാൽ ഇത് E1 ആവും അതേസമയം ഈ വൈൻഡിംഗിന് റെസിസ്റ്റൻസും റീയാക്ടൻസും ഉണ്ട് അത് നമ്മൾ പിന്നീട് കാണും അതിനാൽ ആ സാഹചര്യത്തിൽ യഥാക്രമം E1 E2 എന്നിവ മ്യുച്ചൽ ഇണ്ടക്ടൻസ് വഴി ഇവിടെ ഉണ്ടാവും അതിനാൽ കോയിലിന് N ടേണുകൾ ഉണ്ടെങ്കിൽ അതിലെ ഇൻഡ്യൂസ്ഡ് emf E N d∅ dt എന്നായിരിക്കും അതിൽ ഫാരഡേസ് നിയമം പ്രകാരം ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് N d∅ dt ആവും അതിന്റെ ദിശ നമുക്ക് നൽകുന്നത് ലെൻസിന്റെ നിയമം Lenz's Law ആണ് അതിനാലാണ് അതിന് ഇവിടെ ചിഹ്നം താഴെ പറയുന്ന അനുമാനങ്ങൾ നമ്മൾ അതിന് വേണ്ടി കാണാറുണ്ട് വൈൻഡിങ് റെസിസ്റ്റൻസ് ഇവിടെ അപ്രധാനമാണ് അതായത് വൈൻഡിങ് റെസിസ്റ്റൻസ് ഇല്ല ഉത്പാദിപ്പിക്കപ്പെട്ട മുഴുവൻ ഫ്ളക്സും ട്രാൻസ്ഫോർമേറിന്റെ കോറിൽ തന്നെ നിലകൊള്ളും അതായത് മുഴുവൻ ഫ്ളക്സും വൈൻഡിങ്ങിൽ ഒതുങ്ങിക്കൂടും ലീകേയ്ജ് ഒന്നും ഉണ്ടാവില്ല ഫ്ലക്സ് രണ്ട് വൈൻഡിങ്ങുമായും ബന്ധിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഇനി മൂന്നാമത്തെ അനുമാനം കോറിന്റെ പെര്മിയബിലിറ്റി വളരെ വലുതാണ് അതായത് ഫ്ലക്സ് ഉൽപാദിപ്പിച്ച് കോറിൽ സ്ഥാപിക്കുന്നതിന് ആവശ്യമായ കാന്തിക വൈദ്യുത പ്രവാഹം നിസാരമാണ് ഇനി നാലാമത്തേത് ഡി ഭാഗം ഹിസ്റ്റെറിസിസും എഡ്ഡി കറന്റ് ലോസും നിസ്സാരമാണ് ഇവയാണ് 4 അനുമാനങ്ങൾ ഇവയാണ് ഐഡിയൽ ട്രാൻസ്ഫോർമറിന്റെ 4 അനുമാനങ്ങൾ ഇനി ഒരു ഐഡിയൽ ട്രാൻസ്ഫോർമറിൽ d∅ dt പ്രൈമറിക്കും സെക്കണ്ടറിക്കും തുല്യമാണ് കാരണം ഫ്ലക്സ് ∅ പ്രൈമറിയും സെക്കണ്ടറിയുമായും ലിങ്ക് ചെയ്യുന്നു അതിനാൽ E1 N1 d∅ dt എന്ന് എഴുതാൻ കഴിയും ഇതാണ് വൈൻഡിങ്ങിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെട്ട വോൾട്ടേജ് അതുപോലെ തന്നെ E2 N2 d∅ dt എന്നും ആണ് ഐഡിയൽ ട്രാൻസ്ഫോർമേറിൽ റെസിസ്റ്റെൻസ് അവഗണിക്കപ്പെടുന്നു ഇനി നമ്മൾ E1 E2 വിഭജിച്ചാൽ നമുക്ക് N1 N2 ലഭിക്കും അതിനാൽ E1 N1 E2 N2 എന്നാണ് അതായത് ഓരോ ടേണിലും ഉള്ള ഇഎംഎഫ് സ്ഥിരമാണ് ഇപ്പോൾ ഇൻഡ്യൂസ് ചെയ്ത ഇഎംഎഫിന്റെ പൊളാരിറ്റി ലെൻസിന്റെ നിയമം അനുശാസിക്കുന്നു യഥാർത്ഥത്തിൽ ഇത് മാറ്റത്തെ എതിർക്കുന്നു അതിനാൽ ഇത് യഥാർത്ഥത്തിൽ നെഗറ്റീവ് ആണ് ഹയർ സെക്കണ്ടറി ഫിസിക്സിൽ നിങ്ങൾ പഠിച്ചതാണിതെല്ലാം അതിനാൽ ഒരു ലോസുമില്ലെന്ന് നമ്മൾ കരുതുന്നുവെങ്കിൽ V1 V2 N1 N2 എന്ന് ആക്കാം ഇവിടെ E1 E2 N1 N2 എന്നാണ് ലോസൊന്നുമില്ലെങ്കിൽ V1 N1 V2 N2 എന്ന് എഴുതാം ഇവിടെ വിതരണം ചെയ്ത വോൾട്ടേജ് V1 പ്രൈമറി സൈഡ് വോൾട്ടേജും V2 സെക്കണ്ടറി വോൾട്ടേജുമാണ് അതിനാൽ V1 V2 N1 N2 K ആകും അതിനെ ടേൺസ് റേഷ്യോ എന്ന് വിളിക്കുകയും ചെയ്യാം K എന്നത് വോൾട്ടേജ് റേഷ്യോ അല്ലെങ്കിൽ ടേൺസ് റേഷ്യോ അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ ആണ് അതിനാൽ V2 V1 K എന്നാണ് K ഒന്നിൽ കുറവാണെങ്കിൽ അതിനെ നമ്മൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമർ എന്നും K ഒന്നിൽ കൂടുതലാണെങ്കിൽ അതിനെ സ്റ്റെപ്പ് ഡൌൺ ട്രാൻസ്ഫോർമർ എന്നും വിളിക്കുന്നു ഇവിടെ നമുക്ക് വീണ്ടും ആ സർക്യൂട്ടിലേക്ക് പോകാം നഷ്ടമൊന്നുമില്ലെന്ന് കരുതുക ഈ വശത്ത് വോൾട്ടേജ് V1 ആണ് ഈ വശത്ത് വോൾട്ടേജ് V2 വും അതിനർത്ഥം ഇത് തന്നെയാണ് എന്റെ E1 എന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ളത് ഇവിടെ E2 എന്നും ലോസ് ഇല്ലെന്ന് അനുമാനിക്കുമ്പോൾ പറയാം അതിനാൽ V1 V2 E1 E2 N1 N2 എന്നാവും നമ്മൾ പിന്നീട് V1 ഉം E1 ഉം തമ്മിലുള്ള ബന്ധം കാണും സമാനമായി ഇവിടെയും ഉദാഹരണത്തിന് N1 50 ടേണുകൾ N2 100 ടേണുകൾ ആണെന്ന് കരുതുക അപ്പോൾ K N1 N2 50100 ½ അതായത് K ഒന്നിൽ കുറവാണ് ഇതൊരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമർ ആണ് K ഒന്നിൽ കുറവാണെങ്കിൽ അതിനെ നമ്മൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമർ എന്നും K ഒന്നിൽ കൂടുതലാണെങ്കിൽ അതിനെ സ്റ്റെപ്പ് ഡൌൺ ട്രാൻസ്ഫോർമർ എന്നും വിളിക്കും എന്തുകൊണ്ടാണ് ഇത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമർ ആയത് ഇവിടെ V1 V2 K ½ അതായത് V2 2×V1 അതുകൊണ്ട് ഇത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമർ ആണ് കാരണം പ്രൈമറി സൈഡ് വോൾട്ടേജ് V1 സെക്കന്ററി സൈഡിൽ അത് 2×V1 ആയി മാറുന്നു ഉദാഹരണത്തിന് പ്രൈമറി സൈഡ് 100 kV ആണെങ്കിൽ സെക്കന്ററി സൈഡ് 200 kV ആണ് അതിനാൽ K ഒന്നിൽ കുറവാണെങ്കിൽ അതിനെ നമ്മൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമർ എന്നും K ഒന്നിൽ കൂടുതലാണെങ്കിൽ അതിനെ സ്റ്റെപ്പ് ഡൌൺ ട്രാൻസ്ഫോർമർ ആയും കണക്കാക്കും ഇപ്പോൾ സെക്കന്ററി വൈൻഡിംഗിൽ ഒരു ലോഡ് ബന്ധിപ്പിക്കുമ്പോൾ ഒരു കറന്റ് I2 ഒഴുകുന്നു ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾ തുടക്കത്തിൽ വരച്ച ആ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലും കോറും വൈൻഡിങ്ങും വരയ്ക്കണം ഇപ്പോൾ സെക്കന്ററി വൈൻഡിംഗിൽ ഒരു ലോഡ് ബന്ധിപ്പിക്കുമ്പോൾ ഒരു കറന്റ് I2 ഒഴുകുന്നു ഒരു ഐഡിയൽ ട്രാൻസ്ഫോർമറിൽ ലോസ് അവഗണിക്കപ്പെടുകയും അത് 100 ശതമാനം കാര്യക്ഷമമായി കണക്കാക്കപ്പെടുകയും ചെയ്യുന്നു വാസ്തവത്തിൽ ഐഡിയൽ ട്രാൻസ്ഫോർമർ സാധ്യമല്ലെങ്കിലും നമ്മുടെ വ്യക്തതയ്ക്കായി ഉപയോഗിക്കുന്നു ഇപ്പോൾ പ്രൈമറിയിലെയും സെക്കൻഡറിയിലെയും വോൾട്ട് ആമ്പിയറുകൾ തുല്യമായിരിക്കും അതായത് V1 × I1 V2 × I2 എന്നായിരിക്കണം V1 യഥാർത്ഥത്തിൽ പ്രൈമറി സൈഡ് വോൾട്ടേജും I1 പ്രൈമറി സൈഡ് കറന്റും V2 സെക്കൻഡറി സൈഡ് വോൾട്ടേജും I2 സെക്കൻഡറി സൈഡ് കറന്റും ആണ് അതിനാൽ വോൾട്ട് ആമ്പിയർ സമാനമായിരിക്കണം അതായത്V1 I1 V2 I2 അതായത് V1 V2 I2 I1 അതിനാൽ V1 V2 ഇപ്പോൾ N1 N2 I2 I1 N1 N2 K ആണ് ആയതിനാൽ ഒന്നുകിൽ V1 V2 N1 N2 അല്ലെങ്കിൽ റന്റിന്റെ ബേസിൽ I2 I1 N1 N2 അതായത് N1 I1 N2 I2 എന്ന് എഴുതാം പിന്നീട് അത് മറ്റൊരു മാർഗത്തിലൂടെ കാണാം I2 I1 N1 N2 ഒരു ക്രോസ് ഗുണനത്തിനായി പോകുന്നുവെങ്കിൽ I2 N2 I1 N1 അതിനാൽ സെക്കന്ററി സൈഡിലുള്ള ഇ എം എഫ് പ്രൈമറി സൈഡിലുള്ള ഇ എം എഫിന് തുല്യമായിരിക്കണം ഒരു ട്രാൻസ്ഫോർമറിന്റെ റേറ്റിംഗ് വോൾട്ട് ആമ്പിയറിന്റെ അടിസ്ഥാനത്തിൽ ആണ് പറയുന്നത് അതിന് അമിതമായി ചൂടാക്കാതെ പരിവർത്തനം ചെയ്യാൻ കഴിയും ഈ രീതിയിൽ അതിനെ വോൾട്ട് ആമ്പിയർ ആക്കണം അപ്പോൾ ട്രാൻസ്ഫോർമർ റേറ്റിംഗ് ഒന്നുകിൽ V1 I1 അല്ലെങ്കിൽ I2 സെക്കന്ഡറിയിലെ മുഴുവൻ ലോഡും ഉള്ളപ്പോഴുള്ള കറന്റ് ആണെങ്കിൽ V2 I2 ആണ് ട്രാൻസ്ഫോർമർ റേറ്റിംഗ് സാധാരണയായി ട്രാൻസ്ഫോർമർ നെയിംപ്ലേറ്റിൽ അതിന്റെ റേറ്റിങ് KVA യിൽ നൽകും ഫ്രീക്വൻസിയും പെർ യൂണിറ്റ് ഇംപെഡൻസും എല്ലാം കൊടുത്തിട്ടുണ്ടാവും അതിനാൽ ഒരു ചെറിയ ഉദാഹരണം എടുക്കാം ഫേസർ ഡയഗ്രത്തിലേക്കൊക്കെ പിന്നീട് വരാം ഒരു അനുയോജ്യമായ ട്രാൻസ്ഫോർമറിന്റെ ടേൺസ് റേഷ്യോ 8 1 ഉം പ്രൈമറി കറന്റ് 3 ആമ്പിയറുമാണ് ഇതിലേക്ക് 240 വോൾട്ട് വിതരണം ചെയ്യുമ്പോൾ സെക്കൻഡറി വോൾട്ടേജും കറന്റും കണക്കാക്കുക അതിനാൽ ടേൺസ് റേഷ്യോ 8 1 എന്ന് അർത്ഥമാക്കുന്നത് N1 N2 ആണെന്നാണ് അതായത് N1 N2 8 1 എന്നാണ് അതിനാൽ N1 N2 81 K അതിനാൽ K 8 ആണ് അതിനർത്ഥം ഇത് ഒരു സ്റ്റെപ്പ് ഡൌൺ ട്രാൻസ്ഫോർമറാണ് കാരണം K ഒന്നിനെനേക്കാൾ വലുതാണ് അതിനർത്ഥം V1 V2 K അതിനാൽ V2 V1 K 2408 എന്നാവും അപ്പോൾ V2 30 വോൾട്ട് ആയിരിക്കും അതിനാൽ പ്രൈമറി സൈഡ് 240 വോൾട്ടും സെക്കന്ററി സൈഡ് 30 വോൾട്ടും ആവും അതുപോലെ I2 I1 K ആണെന്ന് അറിയാം അതിനാൽ I2 K I1 ആവും ഇതിൽ I1 3 ആമ്പിയർ ആണെന്ന് നൽകിയിരിക്കുന്നു അതിനാൽ I2 24 ആമ്പിയർ ആവും അതിനാൽ ഈ വശം നോക്കിയാൽ 30 വോൾട്ട് എന്ന ഫുൾ ലോഡ് വോൾട്ടേജ് കുറവാണ് പക്ഷേ അവിടുത്തെ കറന്റ് വർദ്ധിച്ചു കാരണം വോൾട്ട് ആമ്പിയർ തുല്യമായി തുടരണം അതിനാൽ പ്രൈമറി സൈഡിലെ വോൾട്ട് ആമ്പിയർ കാണുകയാണെങ്കിൽ 240 വോൾട്ട് 3 ആമ്പിയർ കറന്റ് 720 വോൾട്ട് ആമ്പിയർ ആണ് ലഭിക്കുന്നത് അതുപോലെ സെക്കന്ററി സൈഡിൽ നോക്കുകയാണെങ്കിൽ അവിടെയും 720 ആയിരിക്കണം അതിനാൽ ഈ വോൾട്ടേജ് V2 30 വോൾട്ട് ആണെങ്കിൽ ഇത് 24 ആമ്പിയർ ആണ് അതും 720 വോൾട്ട് ആമ്പിയർ തരും അതിനാൽ V1 I1 V2 I2 ന് തുല്യമായിരിക്കണം ഇനി മറ്റൊരു ചെറിയ ഉദാഹരണം ഇത് 5 KVA ആണ് ഇത് സിംഗിൾ ഫേസ് ട്രാൻസ്ഫോർമർ ആണ് ഇതിന്റെ ടേൺസ് റേഷിയോ 10 1 ആണ് അതായത് N1 N2 10 1 ആണ് അതിലേക്ക് ഒരു 2 5 kV വിതരണത്തിൽ നിന്ന് 2 5 കിലോവോൾട്ട് നൽകുന്നു ലോസ് അവഗണിക്കുമ്പോൾ ഇവ കണ്ടെത്തുക ഒരു മുഴുവൻ ലോഡ് കൊടുക്കുമ്പോഴുള്ള സെക്കൻഡറി കറന്റ് ബി ഫുൾ ലോഡ് കെവിഎ തരാൻ സെക്കന്ററി വൈൻഡിംഗിലുടനീളം ബന്ധിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും കുറഞ്ഞ ലോഡ് റെസിസ്റ്റൻസ് എത്രയാണെന്നും സി ഫുൾ ലോഡ് കെവിഎയിലെ പ്രൈമറി കറന്റാണ് കാണേണ്ടത് ഇവ എല്ലാമാണ് കണ്ടെത്താൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് ആദ്യത്തേത് N1 N2 10 1അതായത് 101 10 ആണ് ഇനി V1 2 അതിനാൽ 2500 വോൾട്ടിനെ 1000 കൊണ്ട് ഗുണിക്കണം N1 N2 V1 V2 ആയതിനാൽ V2 V1 N2 N1 എന്ന എഴുതാം V1 2500 ആണെന്ന് തന്നിട്ടുണ്ട് അതുപോലെ N2 N1 എന്നത് 110 ആണെന്നും നമുക്കറിയാം V2 250 വോൾട്ട് ആണ് ഫുൾ ലോഡിൽ വോൾട്ട് ആംപിയറിലുള്ള ട്രാൻസ്ഫോർമറിന്റെ നിരക്ക് V2 I2 ആണ് അതിനാൽ V2 V2 I2 അപ്പോൾ KVA 5000 I ആണെന്ന് നൽകിയിട്ടുണ്ട് അതായത് വോൾട്ട് ആംപിയറിലുള്ള ട്രാൻസ്ഫോർമറിന്റെ നിരക്ക് V2 I2 ആണ് ഇവിടെ 5 KVA എന്നാണ് നൽകിയിട്ടുള്ളത് അതിനാൽ 5 1000 ആംപിയർ V2 250 വോൾട്ടും I2 20 ആംപിയറുമാണ് അപ്പോൾ ഇത് ഫുൾ ലോഡ് കറണ്ടാണ് അപ്പോൾ KVA ഇവിടെ 5 KVA ആണ് അതായത് 5000 വോൾട്ട് ആംപിയർ വോൾട്ടേജ് 250 വോൾട്ടാണ് അപ്പോൾ ഇവിടെ കണ്ടത്തേണ്ടത് കറണ്ടാണ് അത് നമുക്ക് I2 20 ആംപിയർ എന്നും കിട്ടി ഇനി ലോഡ് റെസിസ്റ്റൻസിന്റെ കുറഞ്ഞ മൂല്യമാണ് RL V2 I2 ഇവിടെ V2 250 ആണെന്ന് നൽകിയിട്ടുണ്ട് അത്പോലെ I2 20 ആണ് അതിനാൽ ഇത് 12 ഇനി N1 N2 I2 I1 അത് കൊണ്ട് തന്നെ I1 I2 N2 N1 അപ്പോൾ I2 20 ആംപിയറും N2 N1 1 ആണ് അപ്പോൾ 201 10 2 ആംപിയറാണ് ഇനി അടുത്തത് നോ ലോഡ് ഫേസർ ഡയഗ്രം ആണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത് പോലെ ഒരു ട്രാൻസ്ഫോർമറിലെ പ്രൈമറി സെക്കണ്ടറി വൈൻഡിംഗുകൾക്ക് കോർ ഫ്ലക്സ് സാധാരണമാണ് അതിനാൽ ഇത് ഒരു ഫേസർ ഡയഗ്രത്തിലെ റഫറൻസ് ഫേസറായി കണക്കാക്കുന്നു ഉദാഹരണത്തിന് ഒരു ഫേസർ ഡയഗ്രത്തിൽ ഇതാണ് ഫ്ളക്സ് ഇതിൽ ∅ ∅M sin ω t എന്നുള്ളത് ഉറപ്പ് വരുത്തും ഇതാണ് ∅M sin ω t ഇതാണ് ഫ്ളക്സ് നമ്മൾ ∅ഒരു റഫറൻസായിട്ടാണ് എടുക്കുന്നത് Now I0 യും തുല്ല്യ രീതിയിൽ ചെറുതാണ് അതിൽ ലോഡ് കറണ്ട് ഇല്ല അതിലെ ലോസും നിസ്സാരമാണ് അതിനാൽ പ്രൈമറി വൈൻഡിങ് ഒരു പ്യുവർ ഇൻഡക്റ്റർ ആയിരിക്കും കാരണം പ്രൈമറി വൈൻഡിങ്ങിൽ ആൾട്ടർനേറ്റിങ് സപ്ലൈ ആണ് അതിനാൽ ഇതിലെ നഷ്ടടം നിസ്സാരമാണ് എന്നതിനാൽ പ്രൈമറി വൈൻഡിങ് ഒരു പ്യുവർ ഇൻഡക്റ്റർ ആണ് അപ്പോൾ ഈ കേസിൽ എന്താണ് സംഭവിക്കുക എന്നാൽ ലെൻസ് ലോ Lenzs law പ്രകാരം പ്രൈമറി വൈൻഡിങ്ങിന് E1 N1 d∅ dt ആണ് ഈ ചിഹ്നം വന്നത് ലെൻസ് ലോ കാരണമാണ് അപ്പോൾ ഇത് E1 N1 d∅dt ഇനി നമുക്കറിയാം ∅ ∅max sin ω t അതിനാൽ ഇതിന്റെ ഡെറിവേറ്റീവ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് E1 N1∅m ω cos ωt എന്ന് ലഭിക്കും അപ്പോൾ നമുക്ക് N1 ∅m ω cosω t എന്നതിൽ sin 90 o ω t ചേർക്കുകയും ഈ ചിഹ്നത്തെ അകത്തേക്ക് എടുക്കുകയുമാണെങ്കിൽ നമുക്ക് E1 N1 ∅m ω sin ω t 90o എന്ന് ലഭിക്കും അപ്പോൾ ഇതാണ് E1 അതിനർത്ഥം∅ റഫറൻസായിട്ടുള്ള sin ω t ആണെങ്കിൽ അത് നിസ്സാരമായ നഷ്ടമാണ് അതിനാൽ നോ ലോഡ് കറണ്ട് I0 യും ഫ്ളക്സിനോട് കൂടെ ഫേസിലുണ്ടാവും ഇവിടെയുള്ള ലോസ് പൂർണ്ണമായിട്ടും പരിഗണിക്കാതിരിക്കുകയാണെങ്കിൽ I0 എന്നത് V1 ൽ നിന്ന് 90o ൽ ലാഗിങ്ങായിരിക്കും അപ്പോൾ ഈ കേസിൽ I0 ഫേസിൽ ∅ൻറെ കൂടെയുണ്ടാവും പക്ഷെ റെസിസ്റ്റൻസ് ഇവിടെ പരിഗണിക്കാത്തതിനാൽ I0 എന്നത് V1 ൽ നിന്ന് 90o ൽ ലാഗിങ്ങായിരിക്കും അത് പ്രൈമറി വൈൻഡിങ് ഒരു പ്യുവർ ഇൻഡക്റ്റർ ആയത് കൊണ്ടാണ് ഇനി മാഗ്നട്ടൈസിംഗ് റിയാക്സ്റ്റൻസ് Xm എടുക്കുകയാണെങ്കിൽ I0 ഉം ∅ ഉം ഫേസിലുണ്ട് അവ V1 ൽ നിന്ന് 90o ൽ ലാഗിങ്ങായിരിക്കും അതിനാൽ ഈ കേസിൽ E1 ω t 90o അതിനർത്ഥം ∅ ∅m sin t ആണ് മാത്രമല്ല ഇവിടെ ഇത് sin ω t 90o ആണ് അപ്പോൾ V1 എന്നത് ∅ ൽ നിന്ന് 90o ൽ ലാഗിങ്ങായിരിക്കും അപ്പോൾ ഇതാണ് പ്രൈമറി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആയ E1 സമാനമായ രീതിയിൽ E2 വും ലാഗിങ്ങായിരിക്കും അപ്പോൾ E2 V2 ആയിരിക്കും കാരണം നമ്മൾ ഒരു ഐഡിയൽ ട്രാൻസ്ഫോർമർ ആണ് പരിഗണിക്കുന്നത് അതിനാൽ ഇത് സെക്കണ്ടറി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആണ് അത് കൊണ്ട് തന്നെ ലെൻസ് ലോയിൽ നിന്നുള്ള സപ്ലൈ വോൾട്ടേജ് ഈ മാറ്റത്തെ എതിർക്കുന്നു ലെൻസ് ലോയിൽ Lenz's law യഥാർത്ഥത്തിൽ Lenz's law V1 E1 ആണ് E1 d Ѱ dt ആണ് അതിനർത്ഥം V1 N1 d Ѱ dt കാരണം E1 N1 dѰdt ആണ് അപ്പോൾ ഈ ഉം ഉം ഇതിനെ N d Ѱ d t എന്നാക്കും അതിനാൽ ∅m എന്നത് sin ω t ആയിരിക്കും അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുകയാണെങ്കിൽ V1 N1 ∅m ω cos ω t എന്നായിരിക്കും അപ്പോൾ ഇതായിരിക്കും V1 ഇനി ഈ cos ω t നോക്കുകയാണെങ്കിൽ V1 N1 ∅m ω cosωt എന്നതിനെ നമുക്ക് പൊതുവേ ഒന്ന് sin 90 o ω t എന്നായും മറ്റൊരു രീതിയിൽ sin 90 o ω t എന്നായും എഴുതാവുന്നതാണ് അതിനർത്ഥം sin ω t 90 o എന്നായിട്ടെഴുതാം ഇതാണെന്റെ ∅ ∅∅m sin ωt ആണ് അതായത് V1 യഥാർത്ഥത്തിൽ ∅ നെ 90 o ൽ മുന്നിട്ട് നിൽക്കുകയാണ് പിന്നെ V1 E1 ആണ് അപ്പോൾ ഇതാണ് E2 ഇതാണ് E1 അത് പോലെ ഇതാണ് V1 E1 കൂടെ E1 എന്നത് പ്രൈമറി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആണ് അത് പോലെ E2 V2 സെക്കണ്ടറി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആണ് അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ V1 E1 അതിനാൽ അടിസ്ഥാനപരമായി I0 ഇപ്പോൾ ഫേസിലുണ്ടാകും നഷ്ട്ടം നിസ്സാരമാണ് ഇതിൽ ഫ്ളക്സ് ∅ റഫറൻസ് ആയിട്ടാണ് എടുക്കുന്നത് അതിനാൽ I0 ഫ്ളക്സ് ഉൽപാദിപ്പിക്കുകയും ഫ്ലക്സിനൊപ്പം ഫേസിലുമുണ്ട് ഇനി പ്രൈമറി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് E1 ലെൻസ് ലോ Lenz's law പ്രകാരം V1 ന് വിപരീതമായിട്ടുള്ള ഫേസിലാണ് അത് കാണിച്ചിരിക്കുന്നത് V1 ആയിട്ടുള്ള ഫേസിൽ നിന്ന് 180o മാറിയിട്ടാണ് അപ്പോൾ ഇതാണ് E1 ഇത് V1 E1 ഇത് ഫേസിൽ നിന്ന് 180o മാറിയാണ് അതിനാൽ ഈ ലെൻസ് ലോയും Lenz's law ഫാരഡേസ് ലോയും എല്ലാം നിങ്ങൾ ഹയർ സെക്കണ്ടറി ഫിസിക്സിൽ പഠിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇതാണ് നമ്മൾ ലോസ് പരിഗണിക്കാതിരിക്കുമ്പോഴുള്ള ഫേസർ ഡയഗ്രം ഇനി പൊതുവേ കോറിലുള്ള ഹിസ്റ്റെറിസിസ് എഡ്ഡി കറണ്ട് എന്നിവ മൂലം ഊർജ്ജലോസ് സംഭവിക്കുന്നത് കാരണം ഒരു ട്രാൻസ്ഫോർമറിൽ താപനം നടക്കാറുണ്ട് അതുവഴി അവിടെ ഒരു നഷ്ടത്തിന്റെ ഘടകം ഉണ്ടാവുന്നതാണ് അതിനാൽ I0 യഥാർത്ഥത്തിൽ V1 ൽ നിന്ന് 90o ലാഗിങ്ങായിരിക്കില്ല അല്ലെങ്കിൽ ∅1 ൻറെ കൂടെ ഫേസിലുണ്ടാവില്ല അവിടെ I0 ൻറെ ചില ലാഗിങ് ആംഗിൾ ഉണ്ടായിരിക്കുന്നതാണ് ഈ കേസിൽ എന്താണ് സംഭവിക്കുകയെന്നാൽ ഈ I0 യഥാർത്ഥത്തിൽ I ന്റെ കൂടെ കൃത്യമായി ഫേസിലായിരിക്കില്ല കാരണം അതിന് കോർ ലോസ് അല്ലെങ്കിൽ ഇരുമ്പിന്റെ ലോസ് സംഭവിച്ചിട്ടുണ്ട് അതായത് എഡ്ഡി കറന്റും ഹിസ്റ്റെറിസിസ് ലോസുമാണ് അത് കൊണ്ട് തന്നെ ഇത് V1 E1 എന്നത് ശരിയാണ് പക്ഷെ I0 യഥാർത്ഥത്തിൽ V1 ൽ നിന്ന് ∅0 ആംഗിൾ ലാഗ് ചെയ്യുന്നുണ്ട് അതിനാൽ ഈ ആംഗിൾ ∅0 ആണ് ∅ ന്റെ കൂടെയുള്ള ഭാഗം Im I0 sin ∅ആണ് ഈ ഭാഗമാണ് നോ ലോഡ് ഫ്ളക്സ് ഉൽപ്പാദിപ്പിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടിട്ടുള്ളത് ഇത് ∅0 ആയത് കാരണം ഇവിടെ Im I0 ആണ് അതിനാൽ ഇത് cos 90 ∅0 അപ്പോൾ ഇത് I0 sin ∅ അത് പോലെ ഈ Ic എന്നത് I0 cos ∅0 ആയിരിക്കും അതിനാൽ ഈ ഭാഗം ലോഡില്ലാത്ത സാഹചര്യത്തിൽ കോർ നഷ്ട്ടം അല്ലെങ്കിൽ ഇരുമ്പിന്റെ ലോസ് നൽകുന്നതാണ് ആകെ ലോസ് എന്ന് അടിസ്ഥാനപരമായി പറയുന്നത് ഹിസ്റ്ററിസിസും എഡ്ഡി കറണ്ട് ലോസുമാണ് അത് കൊണ്ടാണ് I0 ∅ ന്റെ കൂടെ ഫേസിലല്ലാത്തത് പക്ഷെ ഈ ആംഗിൾ I ∅0 യഥാർത്ഥത്തിൽ വലുതാണ് അതിനാൽ മൊത്തം കോർ ലോസ് ഇരുമ്പിന്റെ ലോസ് V1 I0 cos ∅0 എന്നാണ് അത് പോലെ ഈ Ic I0 cos ∅0 ആണ് V1 Ic എന്നതാണ് മൊത്തം കോർ ലോസ് അല്ലെങ്കിൽ ഇരുമ്പിന്റെ ലോസ് അപ്പോൾ ഇതാണ് ഒരു പ്രാക്ടിക്കൽ ട്രാൻസ്ഫോർമറിന്റെ നോ ലോഡ് ഫേസർ ഡയഗ്രം ഇനി കറണ്ട് ഒഴുകുന്നുണ്ടെങ്കിൽ ലോസ് സംഭവിക്കും ലോസ് പരിഗണിക്കുമ്പോൾ I0 ക്ക് രണ്ട് ഭാഗങ്ങളുണ്ട് ഞാനതെല്ലാം പറഞ്ഞിട്ടുള്ളതാണ് Im അഥവാ മാഗ്നട്ടൈസിങ് കംപോണന്റ് അത് പോലെ Ic അഥവാ കോർ ലോസ് കംപോണന്റ് ഈ മാഗ്നട്ടൈസിങ് കംപോണന്റ് ലോഡില്ലാത്തപ്പോൾ ഫ്ലക്സ് ഉൽപാദിപ്പിക്കുന്നതിന് കാരണമാകുന്നു കോർ ലോസ് കംപോണന്റ് അടിസ്ഥാനപരമായി മാഗ്നറ്റിക് സർക്യൂട്ടിൽ എഡ്ഡി കറണ്ടും ഹിസ്റ്ററെസിസ് ലോസും സപ്ലൈ ചെയ്യുന്നു ഇതിന്റെ സൂത്രവാക്യങ്ങളെല്ലാം ഞാൻ നൽകിയിട്ടുണ്ട് ഇനി അടുത്ത പ്രശ്നത്തിലേക്ക് വരാം ഒരു 2400 400 വോൾട്ട് ട്രാൻസ്ഫോർമർ അതിനാൽ ഇതൊരു സ്റ്റെപ്പ് ഡൌൺ ട്രാൻസ്ഫോർമർ ആണ് കാരണം ഇതിന്റെ പ്രൈമറി വശം 2400 ഉം സെക്കണ്ടറി വശം 400 വോൾട്ടുമാണ് അപ്പോൾ N1 N2 6 V1 V2 ആണ് സിംഗിൾ ഫേസ് ട്രാൻസ്ഫോർമർ 0 5 ആംപിയറിന്റെ ഒരു നോ ലോഡ് കറണ്ട് എടുക്കുന്നു അതിന്റെ കോർ ലോസ് 400 വാട്ട് ആണ് അതായത് കോർ ലോസ് എന്നാൽ V1 I0 cos ∅0 ആണ് അത് 400 വാട്ട് ആണ് എന്ന് നൽകിയിട്ടുണ്ട് നോ ലോഡ് കറണ്ടിന്റെ മാഗ്നട്ടൈസിംഗ് കമ്പോണന്റിന്റെയും കോർ ലോസ് കമ്പോണന്റിന്റെയും മൂല്യം നിർണ്ണയിക്കുകയും ഫേസർ ഡയഗ്രം വരക്കുകയും ചെയ്യുക അപ്പോൾ ഇവിടെ V1 2400 വോൾട്ട് എന്നും V2 400 വോൾട്ട് എന്നും I0 0 5 ആംപിയർ എന്നും നൽകിയിട്ടുണ്ട് കോർ ലോസ് അല്ലെങ്കിൽ അയേൺ ലോസ് എന്നതും 400 വാട്ട് ആണെന്നതും നൽകിയിട്ടുണ്ട് അതിനാൽ V1 I0 cos ∅0 400 അപ്പോൾ 2400 0 അതിനാൽ നമുക്ക് cos ∅0 ⅓ എന്ന് ലഭിക്കും അത് കൊണ്ട് ∅0 70 5o ആണ് ഇനി മാഗ്നട്ടൈസിംഗ് കറണ്ട് Im I0 sin ∅0 471 ആംപിയർ ആണ് കാരണം ∅0 70 5 o ആണ് അത് പോലെ കോർ ലോസ്കമ്പോണന്റ് Ic I0 cos ∅0 0 167 ആംപിയർ ഈ കറണ്ട് ലാഗ് ചെയ്യുന്നത് കൊണ്ട് ഫേസർ രീതിയിൽ എഴുതുകയാണെങ്കിൽ I0 Ic j Im ആയിരിക്കും ഇവിടെ Ic 0 167 ആണ് അതിലേക്ക് j 0 471 ഇതിൽ V1 റഫറൻസായിട്ടെടുക്കുകയാണെങ്കിൽ ഈ കറണ്ട് വോൾട്ടേജിൽ നിന്ന് ലാഗ് ചെയ്യുന്നുണ്ട് അതിനാൽ ഇതിന് ചിഹ്നമായിരിക്കും ഇത് യഥാർത്ഥ ഭാഗമാണ് ഇത് സാങ്കൽപ്പിക ഭാഗവുമാണ് ഇത് കോർ ലോസ് കമ്പോണന്റും ഇത് കറണ്ടിന്റെ മാഗ്നട്ടൈസിംഗ് കമ്പോണന്റുമാണ് അപ്പോൾ ഇതാണ് ഫേസർ ഡയഗ്രം ഇത് V1 ഉം ഇത് E2 400 വോൾട്ടാണ് E1 ഉം ഇവിടെയുണ്ട് ഈ ആംഗിൾ 70 5o ആണ് ഈ ഭാഗം Ic യും ഈ ഭാഗം Im ആണ് ഇതാണ് റിസൾട്ടന്റ് കറണ്ട് I0 ഇതാണ് റഫറൻസ് ഫേസർ ∅ E1 ഇവിടെ നൽകിയിട്ടുണ്ട് E1 ഇവിടെ നൽകിയിട്ടുള്ളത് 2400 ആണ് കാരണം അത് സന്തുലിതമായിരിക്കണം അതിനാൽ ഇത് ഇവിടെ 2400 വോൾട്ടാണ് ഇവിടെയും 2400 വോൾട്ടാണ് ഇനി ഇ എം എഫ് സമവാക്യം നോക്കുകയാണെങ്കിൽ ഈ സമവാക്യങ്ങൾ ഞാൻ മാഗ്നറ്റിക് സർക്യൂട്ടിലും പൊതുവായി നൽകിയിട്ടുണ്ടായിരുന്നു E1 4 44 f ∅m N1 വോൾട്ടും സെക്കണ്ടറി വശവും 4 44 f ∅m N2 വോൾട്ടാണ് അതിനാൽ N1 N2 ചെറിയ മാറ്റമുണ്ടെന്നേ ഒള്ളൂ സമവാക്യങ്ങൾ ഒന്നാണ് ഈ സമവാക്യങ്ങൾ ഞാൻ മാഗ്നറ്റിക് സർക്യൂട്ടിലും നൽകിയിട്ടുണ്ടായിരുന്നു അവിടെ നമ്മൾ ഇതിൽ √ 2 ഹരിക്കുകയെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഈ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ 500 1000 വോൾട്ടും 50 ഹെർട്ട്സും ഉള്ള ഒരു സിംഗിൾ ഫേസ് ട്രാൻസ്ഫോർമറിന് അപ്പോൾ ഇതൊരു സ്റ്റെപ്പ് ഡൌൺ ട്രാൻസ്ഫോർമറായിരിക്കും കാരണം സെക്കണ്ടറി വശത്ത് വോൾട്ടേജ് കുറയുകയാണ് പരമാവധി കോർ ഫ്ളക്സ് ഡെൻസിറ്റി 1 5 Wb m 2 ഉം പര്യാപ്തമായ കോർ ക്രോസ് സെക്ഷണൽ ഏരിയ 50 cm2 ആണ് N1 ഉം N2 ഉം നിർണ്ണയിക്കുക ഇത് വളരെ എളുപ്പമുള്ളതാണ് നമുക്കറിയാം മാഗ്നറ്റിക് സർക്യൂട്ടിൽ നമ്മൾ കണ്ടത് പ്രകാരം ഫ്ളക്സ് B A ആണ് ഈ B ഫ്ളക്സ് ഡെൻസിറ്റിയും A ക്രോസ് സെക്ഷണൽ ഏരിയയുമാണ് So B ഇവിടെ 1 5 Wb m2 ആണ് മാത്രമല്ല A 50 cm 2 ആണ് അതിനാൽ 50 10 4 m2 അതിനാൽ ∅m 1 5 50 10 4 75 10 4 Wb ഇവിടെ E1 4 44 ∅m N1 ആണെന്നത് കൊണ്ട് N1 E1 4 അത് 500 ഹരിക്കണം ഇതാണ് ഇനി അഥവാ ഇത് നൽകിയിട്ടില്ലെങ്കിലും സാധാരണ ഇതൊരു 50 ഹേർട്ട്സ് സിസ്റ്റമാണ് അതിനാൽ f 50 Hz എന്നത് എടുക്കുന്നു കൂടെ ഇതാണ് ∅m അപ്പോൾ നമുക്ക് N1 300 എന്ന് ലഭിക്കും സമാനമായി N2 E2 4

അപ്പോൾ N2 60 എന്ന് ലഭിക്കും അതിനാൽ നമുക്ക് N1 300 എന്നും N2 60 എന്നും ലഭിച്ചു ഇതിൽ വോൾട്ടേജ് അനുപാദം നൽകിയിട്ടുണ്ട് അതായത് V1 V2 നൽകിയിട്ടുണ്ട് V1 V2 N1 N2 500 100 5 N1 300 എന്നാണ് നമുക്ക് കിട്ടിയത് അതിനാൽ N2 300 5 ഇവിടെ നിന്നും നമുക്ക് N2 60 എന്ന് ലഭിക്കും അപ്പോൾ ഇതാണ് N2 60 നമുക്ക് വീണ്ടും കാണാം എല്ലാവര്ക്കും വളരെയധികം നന്ദി